വൈകാരിക ബുദ്ധിയും സാംസ്കാരിക പൊരുത്തപ്പെടലുകളും വൈകാരിക ബുദ്ധിയുടെയും മാനസിക ആരോഗ്യത്തിനും ദീർഘകാല അടിസ്ഥാനത്തിൽ നൽകുന്ന പിന്തുണയെ കുറിച്ചുള്ള നമ്മുടെ ചർച്ചയിലേക്ക് മടങ്ങി വരാം അതിനാൽ തന്നെ വൈകാരിക ബുദ്ധിയുടെ എക്സ് റേ അല്ലെങ്കിൽ അതിന്റെ സൂഷ്മ വിശകലനം നടത്തുന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാം "വോങ് ആൻഡ് ലോ" രീതിയും ബാരന്റെ ഇമോഷണൽ ക്വോഷന്റ് ഇൻവെൻററി എന്നിവയെ കുറിച്ച് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ബാരൻ വികസിപ്പിച്ചെടുത്ത വൈകാരിക ബുദ്ധി പരിശോധിക്കുന്ന പരീക്ഷയിലൂടെ കടന്ന് പോകണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അപ്പോഴത്തെ വൈകാരിക ബുദ്ധിയുടെ നിലവാരം മനസിലാക്കാൻ കഴിയും അതിനൊപ്പം നിങ്ങൾ ഈ മേഖലയിൽ പരിചയം ഉള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ നിർദേശം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വൈകാരിക ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വ്യക്തിത്വത്തിന്റെ വികാസത്തിന് സഹായകരമാകും വിധം ഉപയോഗപ്പെടുത്താൻ കഴിയും ഇപ്പൊൾ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും വൈകാരിക ബുദ്ധി അളന്ന ശേഷം ആയിരിക്കും ജോലിക്ക് ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ വൈകാരിക ബുദ്ധിയുടെ നിലവാരം അളന്ന ശേഷം നിങ്ങൾ ഒരു പക്ഷെ തൊഴിലാളികളെ കൂടിയ വൈകാരിക ബുദ്ധി ഉള്ളവരെന്നും അല്ലത്തവരെന്നും തരം തിരിച്ചേക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തരുടെയും വൈകാരിക ബുദ്ധിയുടെ എക്സ് റേ അല്ലെങ്കിൽ വ്യക്തമായ നിലവാരം മനസ്സിലാകും കൂടിയ വൈകാരിക ബുദ്ധി ഉള്ളവർ കുറഞ്ഞ വൈകാരിക ബുദ്ധി ഉളളവർ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷേ ഗ്രൂപ്പ് ആയി തിരിക്കാൻ കഴിയും ഇത് മറ്റ് സാധ്യതകൾ മനസിലാക്കി താരതമ്യം ചെയ്തത് മനസ്സിലാക്കാവുന്നത് ആണ് ഈ ഗ്രൂപ്പുകൾ വിവിധ തലങ്ങളിൽ പഠിക്കണം ഒരുപക്ഷേ ശരാശരി നിലവാരം പുലർത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും കുറഞ്ഞ വൈകാരിക ബുദ്ധിയുള്ള ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകണം ശരാശരിയിൽ താഴെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഇതിനെയാണ് ഒപ്റ്റിമം എന്ന് പറയുന്നത് നാം ഇക്കാര്യം ബാരന്റെ ഇമോഷണൽ ക്വോഷ്യന്റ് മാപ്പിങ്ങിൽ ചർച്ച ചെയ്തിരുന്നു കുറഞ്ഞ വൈകാരിക ബുദ്ധി ഉള്ളവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് കൌൺസിലിംഗ് രീതി അവലംബിക്കുന്നത് ഉചിതമാണ് ആരംഭത്തിൽ തന്നെ കാരണത്തെ ഉന്മൂലനം ചെയ്യുന്നത് ആണല്ലോ ഉചിതം അതേസമയം അവർക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യമായാൽ മാനസിക ആരോഗ്യ വിദഗ്ധന്റെ അടുത്തേക്ക് അയക്കുന്നത് ആണ് ഉത്തമം അതേസമയം ക്യാൻസർ ഹൃദയ സംബന്ധമായ രോഗം എയ്ഡ്സ് തുടങ്ങിയവയൊട് പൊരുതുന്ന ആളുകൾക്ക് വൈകാരിക ബുദ്ധിയുടെ ഉപയോഗത്തിൽ കുറവ് കാണാം ഇത്തരം രോഗങ്ങൾ നേരിടുന്ന ആളുകൾ ഒരുപക്ഷേ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും അടുത്തിടെ ക്യാൻസർ രംഗത്ത് നടത്തിയ പരീക്ഷണത്തിൽ ശുഭാപ്തി വിശ്വാസം പോസിറ്റിവ് തിങ്കിങ് ക്യാൻസർ രോഗികളിൽ വലിയ സ്വാധീനം ചെലത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞു നല്ലത് നടക്കും എന്ന ചിന്ത രോഗികൾക്ക് പ്രതിരോധ ശേഷി പ്രധാനം ചെയ്യുന്നു എന്നും ഇത് ഒരു പരിധിവരെ രോഗ സൌഖ്യത്തിലേക്ക് നയിക്കുന്നു എന്നും മനസിലാക്കി ന്യൂറോ ഇമ്യുനോളജി പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് വൈകാരിക ബുദ്ധിയുടെ കാര്യക്ഷമായ ഉപയോഗം ക്യാൻസർ ഹൃദയ സംബന്ധമായ രോഗം ഉള്ളവര് എയ്ഡ്സ് രോഗികൾ തുടങ്ങിയവർക്ക് ശുഭാപ്തി വിശ്വാസം രോഗതീവ്രത കുറയ്ക്കും എന്നാണ് കണ്ടെത്തിയത് അതിനാൽ തന്നെ ഡോക്റ്റർമാർ ഇത്തരം രോഗികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് നിർദേശിക്കാറുണ്ട് കഴിവതും സാമൂഹിക പിന്തുണ നൽകുക മനസ് കൂടുതൽ സന്തോഷമായി നിലനിർത്താൻ സഹായിക്കുക എന്നിവയാണ് പ്രധാനം പുഞ്ചിരി രോഗത്തെ ജയിക്കാനുള്ള അത്മശക്തിയായി മാറും കുട്ടികളെ പരിപാലിക്കുന്ന കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഈ മേഖലയിലെ അറിവ് സഹായകരമാണ് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് തുടക്കത്തിലേ കണ്ടെത്താൻ കഴിയും ഇതാണ് കൂടുതൽ പ്രധാനമെന്ന് ആണ് എന്റെ അഭിപ്രായം കാരണം വീട് കുട്ടികളുടെ ആദ്യത്തെ വിദ്യാലയം ആണ് എന്നത് തന്നെ മാതാപിതാക്കൾ ആണ് കുട്ടികൾക്ക് ആദ്യത്തെ അധ്യാപകർ അത്കൊണ്ട് തന്നെ അവരുടെ നിർദേശങ്ങൾ വിദ്യാലയത്തിൽ നൽകുന്ന പരിശീലനത്തേക്കാൾ കാര്യക്ഷമം ആയിരിക്കും എന്നതിൽ സംശയമില്ല അതിനാലാണ് കുട്ടികളുടെ നാണം സംബന്ധിച്ച ഒരു ലേഖനം നാം ഒരു സൈക്കോളജിക്കൽ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ ഹെൽത്ത് റിസേർച്ച് അസോസിയേഷന്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഇന്ത്യയിലെ ശുഭ ചിന്തകളെ പോസിറ്റിവ് തിങ്കിംഗ് സംബന്ധിച്ച ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു എത്തരത്തിലുള്ള രക്ഷാകർതൃത്വം ആണ് കുട്ടികളുടെ സാമൂഹിക ഐക്യപെടലിന് സഹായകരം എന്ന വിഷയത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ഗവേഷക പ്രതിഷ്ഠ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് സംബന്ധിച്ച് നമ്മൾ നടത്തിയ ഒരു സമഗ്ര പഠനതിന്റെ പ്രബന്ധം പ്രായോഗിക മനശ്ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കനേഡിയൻ ജേണലിലും പ്രസദ്ധീകരിച്ചിട്ടുണ്ട് കനേഡിയൻ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസേർച്ച് ആണ് പ്രസ്തുത പ്രബന്ധം പ്രസിദ്ധീകരിച്ചത് വൈകാരിക ബുദ്ധിയുടെ സാധ്യതകൾ മനസിലാക്കിയുള്ള രക്ഷാകർതൃത്വത്തിന് നിരവധി ഗുണങ്ങൾ ഉണ്ടെന്ന് പഠനങ്ങളിൽ കൂടി നാം മനസ്സിലാക്കിയിട്ടുണ്ട് സാമൂഹിക വ്യവഹാരങ്ങൾക്ക് പാകപ്പെടുകയും അതിരുവിട്ട വൈകാരികതയൊട് പ്രതിരോധം തീർക്കുകയും പക്വത വന്ന വ്യക്തിത്വമായി രൂപപ്പെടുന്നതിനും ഈ മേഖലയിലെ ഗവേഷണങ്ങൾ സഹായകരമാണ് അതിനാൽ തന്നെ വൈകാരിക ബുദ്ധിയുടെ പ്രായോഗിക സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പ്രസ്തുത വിഷയം പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നത് ആണ് അദ്ധ്യാപകർ ബോധവൽക്കരണ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർഥികളുടെ സ്വഭാവ രൂപീകരണത്തെ പരിപോഷിപ്പിക്കുകയും സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതാണ് വൈകാരിക ബുദ്ധിയുടെ പരിശീലന പരിപാടിയിൽ മറ്റനേകം രീതികൾ അവലംബിക്കാം ഇത് പ്രധാനമായും വ്യക്തികളുടെ വൈകാരിക ബുദ്ധിയുടെ നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ആണ് ഒരുതരത്തിൽ അത് ആരോഗ്യത്തിനും മൊത്തത്തിലുള്ള വളർച്ചക്കും സഹായകരമാണ് വൈകാരിക ബുദ്ധിയെ മെച്ചപ്പെടുത്തി അവ വ്യക്തിത്വ രൂപീകരണത്തിൽ പ്രതിലഭിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന മറ്റൊരു രീതി ആണ് മാതൃക വ്യതിത്വങ്ങളെ അവതരിപ്പിക്കുക എന്നത് ഒരു എഞ്ചിനീയർ ആകേണ്ട വിദ്യാർത്ഥിയുടെ മുന്നിൽ ലോകോത്തര നിലവാരമുള്ള ഒരു എഞ്ചിനീയറുടെ കഥ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ലോക നിലവാരം ഉള്ള ഒരു ഡോക്ടറുടെ വിജയകഥ മാതൃകയായി അവതരിപ്പിക്കുന്നു ശാസ്ത്രത്തിലോ ഭൌതിക ശാസ്ത്രത്തിലോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് സർ ഐസക് ന്യൂട്ടനെയോ ആൽബർട്ട് ഐൻസ്റ്റീനെയോ മാതൃകയായി അവതരിപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് ഭാവിയിൽ എന്താകണം എന്ന് ചോദിച്ചാൽ ചിലർക്ക് ബ്യൂറോക്രാറ്റ് ആകാൻ ചിലർക്ക് രാഷ്ട്രീയ നേതാക്കൾ ആകണം മറ്റ് ചിലർക്ക് അധ്യാപകർ ആകണം എന്നൊക്കെ ആയിരിക്കും ഉത്തരം പലരെയും ആ ഉത്തരത്തിലേക്ക് അവരെ നയിച്ച മാതൃകകളും ഉണ്ടാകും ചിലർക്ക് ഇത്തരം മാതൃക വ്യക്തികളെ പിന്തുടരുന്നത് ഇഷ്ട്ടം ആയിരിക്കും മഹാത്മാഗാന്ധി സമാധാന പ്രേമി ആയത് കൊണ്ട് അതുപോലെ സമാധാന പ്രേമി ആകണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ അതുവഴി അന്താരാഷ്ട്ര സമാധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന പോലെ ഒരു സ്ഥാപനത്തിലെ മേധാവി എന്ന് പറയുമ്പോൾ ജംഷെഡ്ജി ടാറ്റയെ മാതൃക ആയി കാണുന്ന പോലെ പ്രശസ്ത കമ്പനികൾ അവരുടെ തുടക്കവും വളർച്ചയും എങ്ങനെ ആണ് എന്ന് ജീവനക്കാർക്ക് പറഞ്ഞ് നൽകാറുണ്ട് ധീരുഭായി അംബാനി ചെറിയ കച്ചവടത്തിൽ നിന്നും എങ്ങനെ ആഗോള ഭീമൻ ആയി വളർന്നു എന്ന അനുഭവ കഥകൾ ജീവനക്കാരെ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളവരായി നിലനിർത്താനും കഠിനാധ്വാനികൾ ആകുന്നതിനും സഹായിക്കും Sawaf ഒരു പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് പോലെ "വിജയികൾ വ്യതസ്തമായ കാര്യങ്ങൾ ചെയ്യുകയല്ല ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുകയാണ്" നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഇത്തരം പ്രചോദനം നൽകുന്ന വ്യക്തിത്വങ്ങൾ ആണ് ഇത്തരം കഥകളും അനുഭവ സാക്ഷ്യങ്ങളും ജീവിത വിജയത്തിലേക്കുള്ള പ്രയാണത്തിൽ സഹയകരമായിരിക്കും മാതൃക വ്യക്തിത്വങ്ങളെ പഠിക്കുന്നതിലൂടെ നിരീക്ഷിക്കുന്നതിലൂടെ മനുഷ്യ സ്വഭാവത്തെ എങ്ങനെ വിശകലനം ചെയ്യാമെന്നും നേരിടാമെന്നും ക്രമേണ പഠിക്കുന്നു ചിലർ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ആകണം എന്ന് പറയും മറ്റുചിലരാകട്ടെ ആശയങ്ങളുടെ തീവ്രതയിൽ താൽപര്യമില്ലെന്നും മിതവാദം ആണ് താൽപര്യം എന്നും ഗാന്ധിജിയെ പോലെയോ നെഹ്റുവിനെ പോലെയോ ആകണം എന്നും പറയും ഇങ്ങനെ മാതൃക വ്യക്തികളെ പരിചയപ്പെടുത്തി കുട്ടികളുടെ സ്വഭാവ രൂപീകണത്തിലും സമൂഹത്തിന് അഭികാമ്യമായ മാറ്റം വരുത്താനാകും വ്യക്തിത്വ വികസനത്തിന് മറ്റ് സാധ്യതകളും ഇക്കാലത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ താരക്മെത്ത ഓൾട്ട ചെസ്സ്മാൻ പോലെ വ്യത്യസ്ത ടിവി പ്രോഗ്രാമുകൾ വരുന്നു ചെറിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് തപ്പുസേന അവിടെ ഒരു കുട്ടിയുണ്ട് തപ്പു എന്നറിയപ്പെടുന്ന ഒരു ആൺകുട്ടി ആ സമൂഹത്തിലെ എല്ലാ കുട്ടികളെയും നയിക്കുന്നത് ആ കുട്ടിയാണ് ഒരു അഞ്ചാറ് കുടുംബം ആ സമൂഹത്തിൽ താമസിക്കുന്നതും കൊച്ചുകുട്ടി തന്റെ അനുയായികളുടെ ഒരു ടീമിനെ നയിക്കുന്നതിലൂടെ സമൂഹത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് സീരിയലിന്റെ ഇതിവൃത്തം ആ ചെറിയ സമൂഹം പ്രതിസന്ധിയിലാകുമ്പോൾ കുട്ടികൾ ഒന്നിച്ച് അതിനെ നേരിടുമ്പോൾ മാതാപിതാക്കളും അയൽവാസികളും അവരെ അഭിനന്ദിക്കുന്നു അങ്ങനെയാണ് നല്ല മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വ്യക്തിത്വ വികസനത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതും ലേഖനം വായിക്കുന്നതും ഇക്കാര്യത്തിൽ സഹായകരമാണ് മുൻപ് ഞാൻ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നതിനെ പറ്റിയും ആരാധനയെ പറ്റിയും പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പീക്കിംഗ് ട്രീ എന്ന പംക്തിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ സങ്കീർണ്ണമായ രീതിയിലാണ് ആചാര പ്രകാരം ദൈവത്തെ ആരാധിക്കുന്നത് വളരെ കർശനമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസൃതമായാണ് കഴിഞ്ഞ മാസം ഹിന്ദു വിശ്വാസികൾക്ക് പ്രാധാന്യമുള്ള കാർത്തിക മാസം എന്നറിയപ്പെടുന്ന മാസം ആയിരുന്നു പ്രത്യേകിച്ച് ഒറീസയിൽ എനിക്ക് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെ കാര്യത്തിൽ വ്യക്തതയില്ല കാർത്തിക മാസം ആഘോഷിക്കുന്നത് ശിവന്റെ മകൻ കാർത്തികേയനെ ആരാധിക്കുന്ന മാസമായാണ് കാർത്തികേയൻ ശിവന്റെ മൂത്ത മകനും ഗണേശൻ ഇളയ മകനുമാണ് കാർത്തിക പൂർണിമ വരെ മാസത്തിലുടനീളം വീടുകളിൽ മത്സ്യമാംസാദികൾ കയറ്റില്ല കാർത്തിക പൂർണിമയുടെ അടുത്ത ദിവസം "ചഡക് കൈ" എന്ന് വിളിക്കുന്നു ഇതാണ് ചഡക് കൈ എന്ന ഒറിയ ആശയം അന്ന് മുതൽ വീടുകളിൽ മത്സ്യമാംസാദികൾ കഴിക്കും ഇത് എന്റെ അഭിപ്രായത്തിൽ ഇരട്ടത്താപ്പ് ആണ് കാപട്യം ആണ് ഇത്തരം ആചാരങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകും ഞായറാഴ്ച വെള്ളിയാഴ്ച ബുധനാഴ്ച പോലുള്ള ദിവസത്തിൽ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആളുകളുണ്ടെങ്കിലും അവർ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മത്സ്യമോ മാംസം കഴിക്കുന്നില്ല കാരണം വ്യാഴാഴ്ച ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ദിവസവും തിങ്കളാഴ്ച മഹാദേവനെ ആരാധിക്കുന്ന ദിവസവും ആണ് എന്നതാണ് ഇതിന് കാരണം നിങ്ങൾ മാംസാഹാരിയാണോ സസ്യാഹാരി ആണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ അത് കഴിക്കുന്നതാണെങ്കിൽ അത് തുടരുക വർഷങ്ങളായി കെട്ടിപ്പടുത്ത ഒരു വിശ്വാസമാണ് അത് പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ പരാമർശിച്ച് ഞാൻ ഇക്കാര്യം ഇവിടെ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോളത്തിൽ ഇക്കാര്യം പ്രസീധീകരിക്കാനും അതാണ് കാരണം ക്ഷേത്രത്തിൽ പോകുന്നത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം ആണ് ജോലി ചെയ്യണം എന്നുള്ളപ്പോൾ അത് ചെയ്യുക കളിക്കാൻ തോന്നുമ്പോൾ അത് ക്ഷേത്രത്തിൽ പോകാൻ തോന്നിയാൽ അത് കുറച്ച് സമയം അവിടെ ചിലവഴിക്കുക അല്ല ഞാൻ താഴ്ന്ന ജാതിക്കാരൻ ആണെങ്കിൽ കുളിക്കാതെ ക്ഷേത്രത്തിൽ കയറാൻ കഴിയില്ല ഇതിനെയാണ് നാം ആചാരം എന്ന് പറയുന്നത് യുക്തി ഇല്ലാത്ത പ്രവർത്തനം നല്ല മനസ്സും സമീപനവും വളർത്തിയെടുക്കാൻ ഒരുപക്ഷേ നിരവധി കടമ്പകൾ കടക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാൽ ദേവന്റെയും ദേവിയുടെയും പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് തടയാം മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ തൊഴിലിന്റെ പേരിൽ സമൂഹത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന രീതി വിദ്വേഷം പടർത്തുന്നത് അവസാനിപ്പിക്കാം ഇതൊക്കെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് മനസിലാക്കാൻ കഴിയുന്നതാണ് ഒരു പക്ഷെ നിരവധി തടസങ്ങളും സംശയങ്ങളും പ്രതിസന്ധികളും കടന്ന് സ്വയം വിജയത്തിൽ എത്തിയ ഒരാളുടെ ജീവിത കഥ ഇക്കാര്യങ്ങൾ മനസിലാക്കാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകും അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ആവശ്യപ്പെടുക ചിലപ്പോൾ അത് നിങ്ങളെ സഹായിക്കും ടൈറ്റാനിക് സിനിമയിലെ നായികയുടെ ഉദാഹരണം ഞാൻ പല പ്രഭാഷണത്തിലും സൂചിപ്പിക്കാറുണ്ട് അവൾ കൌമാരപ്രായത്തിൽ ആയിരുന്നപ്പോൾ അവളുടെ അവസ്ഥയെ അവൾ എത്രമാത്രം വൈകാരികമായി നേരിട്ടുവെന്ന് കാണിക്കുന്നുണ്ട് സിനിമയിൽ അതിനാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഇത്തരത്തിലുള്ള കഥകളും നൽകുന്ന സന്ദേശം "പരാജയം ഒന്നിന്റെയും ഒടുക്കം അല്ലെന്നും വിജയം അവസാനത്തേത് അല്ല എന്നുമാണ്" വൈകാരിക ബുദ്ധിയുടെ യാഥാർഥ്യം അതാണ് ജീവിതം ഒരു തുടർച്ചയായ പ്രക്രിയയാണ് നാം വൈകാരികമായി ഉറച്ചതും സുസ്ഥിരവുമായിരിക്കണം അത് നമ്മെ ജീവിത വിജയത്തിലേക്ക് നയിക്കും വ്യക്തിത്വ വികസന പരിപാടികളെക്കുറിച്ചുള്ള വർക്ക്ഷോപ്പിലും സെമിനാറിലും പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ടിവി പ്രോഗ്രാമുകൾ വളരെ വിജ്ഞാനപ്രദവുമാണെന്ന് അറിയാമായിരിക്കുമല്ലോ ടെലിവിഷനുകളിൽ വരുന്ന നിരവധി ബ്രഹ്മ കുമാരിമാരെയും ബ്രഹ്മകുമാർമാരെയും പോലെയുളളവർ ആത്മീയതയെക്കുറിച്ചും സമാധനത്തെ കുറിച്ചും അഹിംസയെക്കുറിച്ചും മാനസികാവസ്ഥയെക്കുറിച്ചും സംസാരിക്കുന്നു മാനസിക സമ്മർദ്ദം എങ്ങനെ നിയന്ത്രിക്കാം ഒരാൾക്ക് ഒറ്റരാത്രികൊണ്ട് തന്റെ വൈകാരിക സ്ഥിരതയോ സ്ട്രെസ് മാനേജ്മെന്റ് കഴിവുകളോ വികസിപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ സമാധാനത്തിലും സമാധാനത്തിലും അവരുടെ മനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീർച്ചയായും സഹായിക്കും മറ്റൊരു കാര്യത്തെ മതത്തിന്റെ പോസിറ്റീവ് വശം എന്ന് വിളിക്കുന്നു ഇത് വളരെയധികം സാന്ത്വനവും മാർഗ്ഗനിർദ്ദേശവും പ്രദാനം ചെയ്യും ഇത് എല്ലാ മതത്തിനും ഓരോതരം ഗുണങ്ങളുണ്ട് ഒരു മതവും മറ്റ് മതങ്ങൾക്കെതിരെ അക്രമം സൃഷ്ടിക്കുന്നില്ല മതത്തിന്റെ ഉടയവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളാണ് സ്വന്തം മതത്തെ നിങ്ങളുടെ മതത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഉയർത്തി കാട്ടാൻ ശ്രമിക്കുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കാനുമുള്ള വൈകാരിക അഭ്യർത്ഥനയല്ലാതെ മറ്റെന്താണ് ഇത് മതം ഒരു ജീവിതരീതിയാണ് ദൈവത്തെയൊ മറ്റ് അമാനുഷിക ശക്തിയെയൊ പ്രസംഗിക്കുന്നു മാർഗം പലത് ആണെങ്കിലും ലക്ഷ്യസ്ഥാനം ഒന്നാണ് അതിനാൽ അതിന്റെ ഗതിയെ മനുഷ്യ സ്വഭാവം കൊണ്ട് നിയന്ത്രിക്കണം മറ്റൊരു പ്രധാന പാഠം കാരന്റെയും ഹരോൾഡിന്റെയും രചനയിൽ നിന്നാണ് സ്വയം അവബോധം പോലുള്ളവ വികസിപ്പിച്ചുകൊണ്ട് ഇക്യു EQ വൈകാരിക ബോധം വികസിപ്പിക്കാൻ കഴിയും "നുണകളുടെ വൃത്തിഹീനത കാണുന്ന വരെ ഞാൻ സത്യത്തെ ഭയക്കും" ഇത്തരത്തിലുള്ള ഉദ്ധരണികൾ എന്റെ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇതാണ് യഥാർത്ഥ ആത്മബോധം നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നിയിട്ടും നുണകൾ പറയുകയാണെങ്കിൽ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ നന്നായിരിക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നെത്തന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുന്നതുവരെ ഞാൻ സത്യത്തെ ഭയപ്പെട്ടു അതുവരെ സത്യം ജയിക്കുകയും ചെയ്തു ചില ആളുകൾ പറയുന്നു ഇത് എന്റെ ചായക്കപ്പല്ല മറ്റുള്ളവർക്ക് നൽകുക അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്നതെന്താണ് ഒരു ശ്രമത്തിന് മുൻപ് തന്നെ പരാജയത്തെ അംഗീകരിക്കുക ആണ് അതാണ് സത്യം ഉപയോഗിച്ച് പരീക്ഷിക്കുക കാരണം കഴിവുകളെ ഉപയോഗിക്കാതെ നിങ്ങളുടെ സാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അടുത്തത് എന്നെ ഇഷ്ടപ്പെടാൻ പഠിക്കുന്നത് വരെ ഞാൻ ഏകാന്തതയെ ഭയപ്പെടുന്നത് ആണ് ഈ ലോകത്ത് നിങ്ങൾ സ്വയം അതിജീവിക്കാൻ പഠിക്കുന്നത് വരെ ആരും നിങ്ങളെ സഹായിക്കില്ല ഞാൻ ദില്ലിയിൽ തനിയെ ആയിരുന്നപ്പോൾ ഞാൻ വിവാഹിതനായിരുന്നില്ല ചില ആളുകൾ പറയുന്നു നിങ്ങൾ എത്രനാൾ തനിച്ചായിരിക്കുമെന്ന് എങ്ങനെ അതിനെ അതിജീവിക്കും എന്നൊക്കെ തനിച്ചായിരിക്കുമ്പോൾ ഞാൻ ടിവി കാണുന്നു ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഇയർഫോൺ ചെവിയിൽ തിരുകി സംഗീതം ആസ്വദിക്കും അവിടെയാണ് നിങ്ങൾ അതിജീവന തന്ത്രങ്ങൾ കണ്ടെത്തേണ്ടത് ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന ആത്മവിശ്വാസം ആണ് പ്രധാനം നിങ്ങള് ജോലിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എല്ലാവരും ഒറ്റയ്ക്കാണ് പക്ഷേ ഒറ്റപ്പെടലുകൾ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാൻ സ്വയം പഠിക്കുന്നതുവരെ ഞാൻ തനിച്ചായിരിക്കാൻ ഭയപ്പെടുന്നത് നിങ്ങൾ ഈ ലോകത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടാൽ എനിക്ക് ചങ്ങാതിമാരില്ല എനിക്ക് സഹപ്രവർത്തകരില്ല എനിക്ക് നല്ല കുടുംബമില്ല അപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ശൂന്യമാണെന്ന് തോന്നും ജീവിതത്തിന്റെ ശൂന്യമായ വശത്തേക്ക് നോക്കരുത് എല്ലായ്പ്പോഴും ജീവിതത്തെ മൊത്തമായും നോക്കൂ അവിടെ സന്തോഷം നിറഞ്ഞ ആനന്ദകരമായ ജീവിതം ഉണ്ട് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ നിങ്ങൾക്ക് ഏകാന്തത കഠിനമായി അനുഭവപ്പെട്ടാൽ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിക്കുക നമുക്ക് ഏതെങ്കിലും സിനിമക്ക് പോകാം നമുക്ക് ഒരു കപ്പ് കാപ്പി കുടിക്കാം എന്ന് പറയുക അങ്ങനെ നിങ്ങൾക്ക് ഏകാന്തത ബോധപൂർവം അകറ്റാം അല്ലെങ്കിൽ ദീർഘനേരം നടക്കാൻ പോകുക തുടങ്ങിയ മാർഗങ്ങൾ ഞാൻ വിദ്യാർത്ഥികളോട് നിർദേശിക്കാറുണ്ട് ഇത്തരം ശീലങ്ങൾ ഒറ്റപ്പെടൽ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ആണ് ഒപ്പം വിഷാദത്തിന്റെ സാധ്യതകളും പരിഹരിക്കാം എന്നിൽ സ്വയം വിശ്വസിക്കാൻ പഠിക്കുന്നത് വരെ നിരസിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിന് പിന്നിലെ ഏറ്റവും വലിയ തത്വമാണിത് എന്റെ ദൈവമേ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിരസിക്കപ്പെടുമെന്ന യുക്തിരഹിതമായ ഭയം സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും പറയുന്നത് കഴിവിനെക്കാൾ ഉപരി ആത്മവിശ്വാസത്തിന് പ്രധാന്യം നൽകണം എന്ന് ഇപ്പൊൾ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ആത്മവിശ്വാസവും യോഗ്യതയും തമ്മിലുള്ള വ്യത്യാസം പ്രകടം ആയത് കണ്ടില്ലേ നിങ്ങൾക്ക് പരിമിതമായ കഴിവുകളെ ഒള്ളു എങ്കിലും ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിയും നിങ്ങൾ ഒരു മനശാസ്ത്രജ്ഞനാണെന്ന് കരുതുക നിങ്ങൾക്ക് കുറച്ച് കമ്പ്യൂട്ടർ ജോലി ആവശ്യമുണ്ട് എന്നാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ല എന്നും കരുതുക അതിനാൽ ചില വ്യക്തിയെ സഹായത്തിന് കണ്ട് പിടിക്കാനുള്ള മാർഗം എന്തായിരിക്കും വ്യക്തിബന്ധങ്ങളിൽ സംഘടന കാര്യങ്ങളിൽ ഒക്കെ ഇക്യു വൈകാരിക ബോധം വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറയുന്നത് ഇക്കാരണത്താൽ ആണ് നിങ്ങൾക്ക് സഹപ്രവർത്തകരുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഹായ് പ്രൊഫസർ എന്ന് ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യും എനിക്ക് ചെറിയ സഹായം ആവശ്യമാണ് അല്ലെങ്കിൽ എന്റെ ഗവേഷണം നിങ്ങളുമായി സഹകരിച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്തൊക്കെയാണ് എന്ന് വ്യക്തം ആക്കുന്നു നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ കൂട്ടിചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒപ്പം സഹകരണ ഗവേഷണ പ്രോജക്റ്റുകൾ നടക്കുന്നത് നിങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യം ആണ് അവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കഴിവുകൾക്ക് പരിമിതി ഉണ്ടായേക്കാം എങ്കിലും ആത്മവിശ്വാസം കൊണ്ട് കാര്യങ്ങളെ നേടിയെടുക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുമായി കണക്റ്റുചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കുന്നത് വരെ നിരസിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നത് അതെ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന മനോഭാവവും ആത്മവിശ്വാസവും ഉയർന്ന വൈകാരിക ബുദ്ധിയുടെ ലക്ഷണവുമാണ് ശ്രമിക്കാതെയിരിക്കുന്നത് ആണ് യഥാർത്ഥ പരാജയം എന്ന് മനസ്സിലാക്കുന്ന വരെയേ പരാജയത്തെ ഭയപ്പെടുകയുള്ളു നിങ്ങൾ ശ്രമിക്കുകയോ ചില പ്രവർത്തനങ്ങൾ പരീക്ഷിക്കുകയോ ചെയ്യുന്നതുവരെ നിങ്ങൾ ഒരു പരാജയമായി തുടരും എന്നെക്കുറിച്ച് അഭിപ്രായം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതുവരെ ആളുകളുടെ അഭിപ്രായത്തെ ഞാൻ പേടിക്കും കിഷോർ കുമാർ ആലപിച്ച പ്രശസ്ത ഗാനം ഓർമ്മയില്ലേ യാ കുസ്തോ ലോ കയ്ഗായെ ലോഗോഗ കാമ കയെഗാ തോ അതിന്റെ അർത്ഥമെന്താണ് നിങ്ങൾ നല്ല ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അഭിപ്രായമുണ്ടാകും എന്റെ ദൈവമേ എന്നായിരിക്കും അവർ പറയുന്നത് എന്ത് അർത്ഥം ഇല്ലാത്ത ജോലികൾ ആണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എല്ലാ അവൻ എല്ലായ്പ്പോഴും മേശയുടെ മുന്നിൽ ഇരിക്കുന്നതായി ഞാൻ കാണുന്നു പക്ഷേ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആളുകൾ പറയും അവൻ ഒന്നും ചെയ്യുന്നില്ല അവൻ അവിടെയും ഇവിടെയും പോയി സമയം കളയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മാത്രം ആണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ടതും ജനകീയനുമായ ആരും ഈ ലോകത്ത് ഇല്ല അതുകൊണ്ടാണ് ആളുകൾക്ക് ഏതുവിധേനയും അഭിപ്രായമുണ്ടാകുമെന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ ജോലിയിൽ ശ്രദ്ധ നൽകി മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ് വേണ്ടത് വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് ഞാൻ മനസിലാക്കുന്നതുവരെ ഞാൻ ദുഃഖത്തെ ഭയപ്പെട്ടു വൈകാരിക ബുദ്ധി കൂടുതൽ ഉള്ള ആളുകൾക്ക് വേദന അല്ലെങ്കിൽ ദുഃഖം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ എളുപ്പമാണെന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെയുള്ളവർ അവരുടെ ദുഃഖം നിറഞ്ഞ ദുരിതപൂർണ്ണമായ സമയം പോസിറ്റീവായി ഉപയോഗിക്കാൻ ശ്രമിക്കും ഈ സമയത്ത് അവർ ആളുകളുമായി ഇടപെഴകാനും മറ്റുള്ളവരെ കരുതാനും കരുതൽ സ്വീകരിക്കാനും ശ്രമിക്കും എന്നാൽ ഇപ്പോഴും ഓർക്കേണ്ട കാര്യം വിജയത്തിലേക്ക് കുറുക്കു വഴികൾ ഇല്ല എന്നതാണ് അതിനാൽ തന്നെ വിജയങ്ങൾ നേടുന്നതിന് നിങ്ങൾ കുറച്ച് വേദന അനുഭവിക്കണം അതുകൊണ്ടാണ് വേദനയില്ലെങ്കിൽ നേട്ടവും ഇല്ല എന്ന് ഞങ്ങൾ പലപ്പോഴും പറയുന്നത് മാറ്റം അനിവാര്യമാണെന്ന് കാണുക ഈ ലോകത്തിലെ ഒരേയൊരു സ്ഥിരതയാണ് ഒരേയൊരു മാറ്റം എന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് അതായത് അനുനിമിഷം മാറ്റം സംഭവിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സ്വയം മാറാൻ സാധ്യതയുണ്ട് ഒരു ട്രാഫിക് ജാം Traffic Jamപോലെ മാത്രമേ നിങ്ങൾ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കാണേണ്ടതുള്ളു ചുവന്ന വെളിച്ചത്തിൽ നോക്കി പച്ച വെളിച്ചത്തിനായി കാത്തിരിക്കുന്ന പോലെ തുടർ യാത്രക്കായി പരിശീലനം പരിഷ്ക്കരണം കാണുക നിരീക്ഷണം അനുകരണം എന്നിവയുടെ സഹായത്തോടെ നിങ്ങൾക്ക് മാറാനാകും നിങ്ങൾക്ക് പച്ച കൂടുതൽ മെച്ചപ്പെട്ട ഘട്ടത്തിൽ എത്തിച്ചേരാനാകും ആർക്കും മാറാനുള്ള ശ്രമങ്ങൾക്കൊപ്പം മെച്ചപ്പെടാൻ കഴിയും വൈകാരിക ബുദ്ധിയിലൂടെ മനുഷ്യജീവിതത്തിൽ മാറ്റം വരുത്തുന്നതും ആളുകൾ സംഘടനയിൽ വൈകാരിക ബുദ്ധി പ്രയോഗിക്കുന്ന രീതിയും ഇതാണ് വൈകാരിക ബുദ്ധിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം നേതൃപാടവം മറ്റ് മേഖലകൾ ഒക്കെ നാം പിന്നീട് ചർച്ച ചെയ്യും ജീവിത നൈപുണ്യം പഠിപ്പിക്കുന്നതുപോലെ നിരവധി എൻ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ മേഖലകളിൽ നിരവധി ജീവിത നൈപുണ്യ വിദഗ്ധർ പ്രവർത്തിക്കുന്നുണ്ട് അവർ ചെറുകിട ബിസിനസ്സ് നടതുന്നതിനും സ്വയം സഹായിക്കുന്നതിനും വേണ്ടി വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് ജീവിത നൈപുണ്യം പരിശീലനം നൽകുന്നു ഗവൺമെന്റ് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തികളുടെ കാര്യക്ഷമതയും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശീലനങ്ങൾ സ്പോൺസർ ചെയ്യുന്നു ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ എല്ലാ വർഷവും ചില കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിലൂടെ ആളുകളെ സ്വയംപര്യാപ്തരാക്കാമെന്ന് സർക്കാർ ലക്ഷ്യമിടുന്നു ചില സാങ്കേതിക പരിശീലനങ്ങൾ ഒഴിവാക്കി ചില സാങ്കേതികേതര കഴിവുകളെക്കുറിച്ച് ആളുകളെ ബോധവത്കരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് മാനേജെരിയൽ കഴിവ് പെരുമാറ്റത്തിലെ കഴിവ് പരസ്പരം ഇടപെഴകുന്നതിലെ കഴിവുകൾ ഇവ വളരെ പ്രധാനപ്പെട്ട കഴിവുകളാണ് ഇത്തരം സ്വഭാവരൂപീകരണവുമായി ബന്ധപ്പെട്ട പരിശീലനം മനോഭാവത്തെയും വിശ്വാസങ്ങളെയും പരസ്പരം പെരുമാറുന്ന രീതി വ്യക്തിഗത ആശയവിനിമയ ഇടപെടൽ മുതലായവ മെച്ചപ്പെടുത്താൻ സഹായകരമായിരിക്കും അതുപോലെ തന്നെ ചില വൈകാരിക കഴിവുകളും ഉണ്ട് വൈകാരിക ബുദ്ധി കഴിവുകൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ചില വൈകാരിക കഴിവുകൾ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും എങ്ങനെ സാധാരണ ആളുകളെ അതിന് പ്രാപ്തരാക്കും സമ്മർദ്ദകരമായ സന്ദർഭത്തിൽ ആളുകളെ എങ്ങനെ ആത്മവിശ്വാസമുള്ളവരാക്കാമെന്നും ആളുകൾ എങ്ങനെ വൈകാരികമായി പക്വത നേടുന്നു എന്നതാണ് പ്രധാനം നമ്മുടെ ഐഐടി പോലുള്ള ഉയർന്ന സാങ്കേതിക വിദഗ്ധരെ നിങ്ങൾ ചിലപ്പോൾ അവിടെ കണ്ടെത്തും ഇന്ത്യയുടെ പ്രസിഡന്റ് ആണെന്ന് മുന്നിൽ വന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി എന്തുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇന്ത്യയുടെ പ്രസിഡന്റാണെങ്കിൽ എന്ന് സങ്കല്പിച്ച് ഒരു മിനിറ്റ് നേരം സംസാരിക്കാൻ സർ ഒരു തയ്യാറെടുപ്പും കൂടാതെ എങ്ങനെ ഇതുപോലെ സംസാരിക്കും എന്ന് ചോദിച്ചാൽ ഒരു തയാറെടുപ്പും ആവശ്യമില്ല ഇത്തരം ഒരു സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം അതിന്റെ അടിസ്ഥാനം നിങ്ങളുടെ ആത്മവിശ്വാസം ആണ് കാരണം നിങ്ങൾ എല്ലാ ദിവസവും പ്രസിഡന്റിനെക്കുറിച്ചും പ്രധാനമന്ത്രിയെ കുറിച്ചും കേൾക്കുന്നു ആത്മവിശ്വാസവും ശക്തമായ തീരുമാനമെടുക്കാനുള്ള കഴിവുകളും വളർത്തിയെടുക്കുന്നതിനായി ഞങ്ങൾ അവിടെയാണ് നിശ്ചയദാർഢ്യം പരിചയപ്പെടുത്തുന്ന ചില പ്രോഗ്രാമുകൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ പറയാം ആരോഗ്യ പരിപാലനത്തിന്റെ പ്രചരണത്തിന് പ്രശ്നപരിഹാരത്തിനും പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും നിരവധി എൻ കൾ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പല സ്ഥലങ്ങളിൽ പോകുന്നു ഒപ്പം ഡോക്ടർമാർ എൻജിഒ പ്രൊഫഷണലുകൾ നഴ്സ് തുടങ്ങിയവർ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടിയിൽ ഏർപ്പെടുന്നു മദ്യം പുകയില മയക്കുമരുന്ന് ശീലങ്ങൾ മുതലായവയുടെ പാർശ്വഫലങ്ങൾ അവരോട് പറയും കൂടാതെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയുടെ അമിത ഉപയോഗം സാമൂഹിക അക്രമങ്ങൾ ഗാർഹിക പീഡനങ്ങൾ തുടങ്ങിയവ എങ്ങനെ വർധിപ്പിക്കുന്നു എന്നും അവരോട് പറയുന്നു അതിനാൽ തന്നെ ഇത്തരം പരിപാടികളെ ഞങ്ങൾ സാമൂഹിക പരിഷ്ക്കരണ പരിപാടികൾ എന്നും വിളിക്കാറുണ്ട് ഓർഗനൈസേഷൻ തമ്മിലുള്ള പ്രശ്ന പരിഹാരം പൊരുത്തപ്പെടൽ മാറ്റം ഉൾക്കൊള്ളാനുള്ള സാമൂഹിക പിന്തുണ തുടങ്ങിയവ ആവശ്യമാണ് ചെറിയ ഓർഗനൈസേഷൻ മുതൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ ഈ കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ പ്രധാനം ആണ് സിറിയ ഐസിസും നാറ്റോ സേനയും തമ്മിലുള്ള പോരാട്ടം ഉദാഹരണമായി കണക്കാക്കുക അതിനാൽ ഇപ്പോൾ ആളുകൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ബോംബാക്രമണം കാരണം കുടിയേറുന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അക്രമങ്ങൾ സൃഷ്ടിച്ചു അതിനാലാണ് വിവിധ രാജ്യങ്ങൾ സമാധാനത്തിന്റെ ഏജന്റുമാരായി നിന്ന് രാജ്യങ്ങൾക്കിടയിൽ ഐക്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അംബാസഡർമാർ പരസ്പരം കണ്ടുമുട്ടുന്നതും സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗം ആണ് പാക്കിസ്ഥാൻ വിദേശകാര്യ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് കൂടിക്കാഴ്ചകൾക്കായി വരുന്നു അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടത്തിന് ശമനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ അന്തർദ്ദേശീയ തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ കാര്യത്തിൽ ഓർഗനൈസേഷൻ ലെവലിൽ സ്കൂൾ തലത്തിൽ വിദ്യാർത്ഥികളും അദ്ധ്യാപകരും തമ്മിൽ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥി നേതാക്കളും ഐഐടിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും തമ്മിൽ കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥി കൂട്ടായ്മകൾ പരസ്പരം പോരടിക്കുന്നതിന്റെ കാരണം ഐഐടി തിരഞ്ഞെടുപ്പ് സർവകലാശാലയേക്കാൾ വ്യത്യസ്തമായത് കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയില് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് വേഗം മനസിലാകും ഇപ്പോഴും ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു അത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് തിരികെ ഏതുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദമായി ചർച്ച ചെയ്യാം